സുപ്രഭാതം എഞ്ചിനീയറിംഗ് മെട്രോളജി കോഴ്സിലെ ലബോറട്ടറി ഡെമോൺസ്ട്രേഷൻ സെഷനിലേക്ക് തിരികെ സ്വാഗതം ഞാൻ ഇവിടെ തിരഞ്ഞെടുത്ത അടുത്ത ഉപകരണം ഗിയർ വെർനിയർ ആണ് ഈ ഗിയർ വെർനിയർ വെർനിയർ കാലിപ്പറുമായി വളരെ സാമ്യമുള്ളതാണ് വ്യത്യാസം 2 സ്കെയിലുകളാണുള്ളത് ഒന്ന് ലംബ വെർട്ടിക്കൽ vertical സ്കെയിൽ മറ്റൊന്ന് തിരശ്ചീന ഹൊറിസോണ്ടൽ horizontal സ്കെയിൽ നമുക്ക് പ്രധാന സ്കെയിലും വെർനിയർ സ്കെയിലും ഉണ്ട് ഇവിടെ രണ്ട് സ്കെയിലുകളും 2 ജോസും ഉണ്ട് നമുക്ക് 2 ജോസ് ഉണ്ടെന്നും ലംബമായ തലം ബന്ധിപ്പിച്ചിരിക്കുന്ന ജോയും കാണാം ലംബ സ്കെയിലിൽ ഒരു പ്ലേറ്റ് ഘടിപ്പിച്ചിരിക്കുന്നു ഈ പ്ലേറ്റ് അതിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഈ പ്ലേറ്റിന്റെ ഉദ്ദേശ്യം ഗിയറിന്റെ അളവുകൾ അളക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇത് ഗിയറിന്റെ പുറം വ്യാസത്തിലേക്ക് ലോക്ക് ചെയ്യും എന്നതാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ കാണിക്കും മറ്റൊരു തിരശ്ചീന സ്കെയിൽ ഉണ്ട് ഞാൻ തിരശ്ചീന സ്കെയിൽ അടയ്ക്കുമ്പോൾ തിരശ്ചീന സ്കെയിലിൽ ഇവിടെ സ്ലോട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ ഈ പ്ലേറ്റിന് സ്ലോട്ടിനുള്ളിൽ നീങ്ങാൻ കഴിയും ഇത് തിരശ്ചീന സ്കെയിലാണ് ഇത് ലംബ സ്കെയിലാണ് ലംബ ജോ തിരശ്ചീന ജോ എനിക്ക് അങ്ങനെ പറയാം എന്നിരുന്നാലും ഇത് കോളിപ്പർ മാത്രമാണ് ഈ അകലം അല്ലെങ്കിൽ ഈ ജോയുടെ അഗ്രത്തിൽ നിന്ന് ഈ പ്ലേറ്റിന്റെ ദൂരം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഏകദേശം 1 മില്ലീമീറ്ററാണ് ഈ ദൂരം ഏകദേശം 1 മില്ലീമീറ്ററാണ് ഇത് ഇവിടെ ഒരു ചെറിയ ദൂരമാണ് ഈ 1 മില്ലീമീറ്റർ ഇതിനകം ഉപകരണത്തിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിത് ഇവിടെ അടച്ചാൽ ഇവിടെ 0 എന്നത് പൂജ്യം അല്ല ആദ്യത്തെ റീഡിങ് 1 മില്ലീമീറ്റർ എന്നതുമായി പൊരുത്തപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാം പക്ഷേ ഇത് 0 ആണ് ആദ്യ റീഡിങ്ങുമായി യോജിക്കുന്നു പൂജ്യം അല്ല അതിനാൽ ഈ ദൈർഘ്യം ക്രമീകരിക്കുന്നതിന് വരുത്തിയ ക്രമീകരണമാണിത് അതിനാൽ ഇത് ഇവിടെയുള്ള ആദ്യത്തെ റീഡിങ്ങുമായി പൊരുത്തപ്പെടുന്നു എന്നിരുന്നാലും ഞാൻ എന്റെ തിരശ്ചീന സ്കെയിൽ നീക്കംചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നീട്ടാൻ കഴിയും ഞാൻ ഒരു ഉപരിതല പ്ലേറ്റ് ഉപയോഗിച്ച് സ്പർശിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ പൂർണ്ണമായും സ്പർശിച്ചാൽ എന്റെ സ്ക്രൂകൾ ലോക്ക് ചെയ്യും ഇപ്പോൾ ഇത് കൃത്യമായി പരന്നതാണെന്നും ഇവിടെ 0 പൂജ്യവുമായി പൊരുത്തപ്പെടുന്നതാണെന്നും നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മുടെ ലക്ഷ്യം ഒരു ഗിയറിന്റെ ഗിയർ ടൂത്തിന്റെ സവിശേഷത അളക്കുക എന്നതാണ് ഞാൻ ഇങ്ങനെ കടത്തുമ്പോൾ ഈ 1 മില്ലീമീറ്റർ ക്രമീകരണം ഇവിടെയുണ്ട് D - 1 V C 1 M 04 mm രണ്ട് സ്കെയിലുകളിലും ലംബ തിരശ്ചീന സ്കെയിലുകളിലും ഇരുവശത്തും സമാനമായ വെർനിയർ സ്കെയിലുകൾ സമാന തരം ഡിവിഷനുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ലംബ സ്കെയിലിലെ ഒരേയൊരു വ്യത്യാസം ആദ്യത്തെ ഡിവിഷൻ ചേരുന്നതല്ല എന്നതാണ് ഈ പ്ലേറ്റ് തിരശ്ചീന സ്കെയിലിലേക്ക് കടത്താനുള്ള ഒരു ക്രമീകരണമായിരുന്നു അത് അതിനാൽ നമുക് ലീസ്റ്റ് കൌണ്ട് ലഭിച്ചു ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഗിയർ ഉണ്ട് പുറം വ്യാസമുള്ള ഗിയറാണിത് ഐഐടി കാൺപൂരിലെ നമ്മുടെ മാനുഫാക്ചറിംഗ് സയൻസ് ലാബിൽ തന്നെ നിർമ്മിച്ച ഗിയറാണ് ഇത് ഇത് യഥാർത്ഥത്തിൽ ഒരു മില്ലിംഗ് മെഷീനിൽ ഇൻഡെക്സിംഗ് അറ്റാച്ചുമെന്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നു പല്ലുകളുടെ എണ്ണം 36 പുറം വ്യാസം 57 മില്ലീമീറ്ററിന് തുല്യമാണ് ഗിയർ പദങ്ങൾ നമുക്കറിയാം ഇതൊരു ഗിയർ ടൂത്ത് ആണെങ്കിൽ ഇത് നമ്മുടെ ആന്തരിക വ്യാസം ഇതാണ് മധ്യം ഇത് ഒരു കേന്ദ്രമായി ഞാൻ പരിഗണിക്കട്ടെ ഇത് ആന്തരിക വ്യാസവും ഇത് പൂർണ്ണമായി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ ബാഹ്യ വ്യാസമാണ് അതിനിടയിൽ നമുക്ക് പിച്ച് സർക്കിൾ വ്യാസം ഉണ്ട് Tooth Thickness 1 2 3 Average M D Tooth number 1 3 64 3 60 3 60 3 64 3 60 4 3 60 3 60 5 3 56 മൊത്തത്തിലുള്ള ശരാശരി 3 60mm ഗിയർ കറങ്ങുന്ന അതേ രീതിയിൽ കറങ്ങുന്ന ഒരു റോളറിന്റെ വ്യാസമാണ് പിച്ച് സർക്കിൾ വ്യാസം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 2 മെഷ് ചെയ്ത ഗിയറുകൾ തമ്മിലുള്ള സമ്പർക്കത്തിന്റെ ശരാശരി വ്യാസം ഉള്ള ഒരു വ്യാസമാണ് ആഴവും കനവും പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ഈ മൂല്യം പിച്ച് സർക്കിൾ വ്യാസത്തിൽ കനം ടി ഈ ആവശ്യത്തിനായി നമുക്ക് ഈ ഗിയർ വെർനിയർ ഉപയോഗിക്കാം ആദ്യം എനിക്ക് അനുബന്ധത്തിന്റെ മൂല്യം എന്താണെന്ന് കാണേണ്ടതുണ്ട് ഞാൻ ആദ്യം നോക്കാം അനുബന്ധത്തിന്റെ മൂല്യം എന്താണ് ഈ ദൈർഘ്യം യഥാർത്ഥത്തിൽ അനുബന്ധമാണ് ഇത് മുമ്പ് പഠിപ്പിചിരിക്കുന്നു ഇത് ഡെഡെൻഡം ഡെഡെൻഡത്തിന്റെ മൂല്യം വ്യാസം മൈനസ് പിച്ച് സർക്കിൾ വ്യാസം 52 mm a O 52 24 04 2nd6th പ്രധാന വ്യാസമായ പിച്ച് സർക്കിൾ വ്യാസത്തിൽ നമ്മൾ കനം കാണേണ്ടതുണ്ട് ഗിയറിന് എന്ത് തേയ്മാനം ഉണ്ടെങ്കിലും അതിൽ ഭൂരിഭാഗവും സാധാരണയായി പിച്ച് സർക്കിൾ വ്യാസത്തിൽ ആണ് ആദ്യം ഞാൻ എന്റെ ലംബ സ്കെയിൽ 2 24 ആയി ശരിയാക്കും 1 മില്ലീമീറ്റർ ഇതിനകം ഉണ്ട് ശരി ഞാൻ അതിനെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും രണ്ടാമത്തെ റീഡിങ് 2 24 ആണ് ഇപ്പോൾ ഇത് 2 24 ആണ് ഇത് 2 പ്ലസ് 0 24 ആണ് ഇത് 2 പ്ലസ് 0 24 ന് തുല്യമാണ് ലീസ്റ്റ് കൌണ്ട് 0 04 പ്രകാരം ഇത് 2 പ്ലസ് തുല്യമാണ് ശരി യഥാർത്ഥത്തിൽ ഇതാണ് പ്രധാന സ്കെയിൽ റീഡിങ് ഇതാണ് പ്രധാന സ്കെയിൽ ഡിവിഷൻ ഇതാണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ പ്രധാന സ്കെയിലിന്റെ രണ്ടാം ഡിവിഷനും ആറാമത്തെ ഡിവിഷനും ഞാൻ രണ്ടാമത്തെ ഇട്ടു വെർനിയർ സ്കെയിലിന്റെ ആറാമത്തെ ഡിവിഷൻ ഇട്ടു പ്രധാന സ്കെയിലിന്റെ രണ്ടാം ഡിവിഷനുശേഷം ആറാമത്തെ ഡിവിഷൻ പൊരുത്തപ്പെടണം അതിനാൽ ഞാൻ അത് എടുക്കും അത് രണ്ടാമത്തെ ഡിവിഷനിൽ നിന്ന് മുന്നോട്ട് പോകും അതിനുശേഷം ആറാം ഡിവിഷൻ 0 1 2 3 4 5 ആറാം ഡിവിഷൻ പൊരുത്തപ്പെടണം ഇത് കുറച്ച് ചെറിയ ക്രമീകരണം ആയിരിക്കണം ഞാൻ ആറാം ഡിവിഷനിലേക്ക് അടുപ്പിക്കും ലോക്ക് ഈ സൂക്ഷ്മ ക്രമീകരണ സ്ക്രൂ മുറിക്കുക അതിനാൽ സൂക്ഷ്മ ക്രമീകരണ സ്ക്രൂ ഉപയോഗിച്ച് ഈ ആറാമത്തെ റീഡിങ്ങുമായി പൊരുത്തപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും ശരി അത് ലോക്ക് ചെയ്യുക ഏകദേശം കൃത്യമാണ് ഇപ്പോൾ ഈ ഉയരം 2 24 ആണ് ഇത് അനുബന്ധത്തിന്റെ ദൈർഘ്യമാണ് ഇപ്പോൾ ഞാൻ എന്റെ ഗിയർ വെർനിയർ എന്റെ ഗിയറിൽ ചേർക്കുമ്പോൾ അത് പിച്ച് സർക്കിൾ വ്യാസത്തിൽ എത്തും ഇപ്പോൾ ഇവിടെ കനം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തേത് സാമ്പിൾ തിരഞ്ഞെടുക്കലാണ് 1 2 3 4 5 പല്ലുകൾ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുല്യഅകലത്തിൽ ഉള്ള 5 അല്ലെങ്കിൽ 6 പല്ലുകൾ ഞാൻ തിരഞ്ഞെടുക്കും ശരി ഞാൻ അവരെ ഇവിടെ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തി ഞാൻ ഈ 6 പല്ലുകൾ തിരഞ്ഞെടുക്കും അച്ചുതണ്ടിന്റെ ദിശയിലുള്ള പല്ലുകളുടെ തിരഞ്ഞെടുപ്പാണിത് ഇത് അക്ഷീയ ദിശയിലായിരുന്നു അക്ഷീയ ദിശയിൽ ഞാൻ ഒന്നിൽ കൂടുതൽ റീഡിങ് എടുക്കും 1 2 3 ഒരു ഗിയറിന് 3 റീഡിംഗുകൾ ആകാം ഈ ആദ്യത്തെ പല്ലിൽ ഈ റീഡിങ് എടുക്കാൻ ഞാൻ ശ്രമിക്കാം ഞാൻ അത് മുന്നോട്ട് കൊണ്ടുപോകും അത് മിക്കവാറും ലോക്ക് ആയിരിക്കുന്നു സൂക്ഷ്മ ക്രമീകരണം ഉപയോഗിച്ച് ക്ലാമ്പിംഗ് സ്ക്രൂ ലോക്ക് ചെയ്യുക ഉചിതമായ ബലം പ്രയോഗിക്കുക വളരെ വലിയ ശക്തിയല്ല വളരെ വലുതോ വളരെ അയഞ്ഞതോ അല്ലാതെ അത് ശരിയായി സ്പർശിക്കുന്ന വിധത്തിൽ ഉചിതമായ ശക്തി പ്രയോഗിക്കുക അത് ശരിയായി സ്പർശിച്ചു ഇപ്പോൾ ഞാൻ ഇത് ലോക്ക് ചെയ്യുകയും റീഡിങ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് സ്ക്രൂകളും ഞാൻ ഇവിടെ ലോക്ക് ചെയ്ത ശേഷം നമുക്ക് കാണാൻ കഴിയും നമുക്ക് അത് കാണാൻ കഴിയും അത് പ്രധാന സ്കെയിലിന്റെ ഫോഴ്സ് റീഡിംഗിനെ മറികടന്നു പ്രധാന സ്കെയിലിന്റെ ഈ ഒരു റീഡിങ് യഥാർത്ഥത്തിൽ 1 മില്ലീമീറ്ററാണ് ഫോഴ്സ് റീഡിംഗ് കവിഞ്ഞതിനുശേഷം വെർനിയർ സ്കെയിലിന്റെ ഏത് റീഡിങ്ങാണ് പ്രധാന സ്കെയിലുമായി പൊരുത്തപ്പെടുന്നതെന്ന് ഞാൻ കാണേണ്ടതുണ്ട് പതിനാറാമത്തെ റീഡിങ് 0 1 2 3 4 5 16 മത്തെ റീഡിങ് ക്ഷമിക്കണം പ്രധാന സ്കെയിലിൽ ഇത് മൂന്നാമത്തെ റീഡിങ് കവിയുന്നു മൂന്നാമത്തെ റീഡിങ്ങിന് ശേഷം 16 മത്തെ റീഡിങ് കാരണം അവ 4 ഡിവിഷനുകൾ മാത്രമായിരുന്നു അവക്ക് 4 ഡിവിഷനുകൾ മാത്രമേയുള്ളൂ ഇത് ഇവിടെ മൂന്നാമത്തെ റീഡിങ് കവിയുന്നു മൂന്നാമത്തേതിന് ശേഷം 16 മത്തെ വായന ഇവിടെ പൊരുത്തപ്പെടുന്നു ഇവിടെ പൊരുത്തപ്പെടുന്നു അതിനാൽ പല്ലിന്റെ കനം മൂല്യം ഞാൻ ടൂത്ത് 1 ടൂത്ത് 2 ടൂത്ത് 3 ടൂത്ത് 4 ടൂത്ത് 5 എന്നിവ തിരഞ്ഞെടുക്കും റീഡിങ് നമ്പർ 1 2 3 എന്നിവ ശരി ആദ്യത്തെ പല്ലിന്റെ ആദ്യ റീഡിങ് ഞാൻ ഇവിടെ കണക്കുകൂട്ടലുകൾ നടത്തും യഥാർത്ഥത്തിൽ 3 പ്രധാന സ്കെയിൽ റീഡിംഗിൽ പ്ലസ് 16 ഗുണം 0 04 ഇത് 3 പ്ലസ് 0 64 എന്നത് 3 64 ന് തുല്യമാണ് അതിനാൽ ഈ റീഡിങ് 3 64 ആണ് അതുപോലെ എനിക്ക് ഒരേ പല്ല് എടുത്ത് മധ്യത്തിൽ റീഡിങ് എടുക്കാം എന്നെ ഈ ക്ലാമ്പുകൾ അഴിക്കാൻ അനുവദിക്കുക ശരി അത് അഴിക്കുക വീണ്ടും അതേ തത്ത്വം ഞാൻ ആദ്യം സ്ഥിരമായ സ്കെയിൽ ഉപയോഗിച്ച് സ്പർശിക്കുകയും പരിമിത ക്രമീകരണ സ്ക്രൂ ക്ലാമ്പ് ശക്തമാക്കുകയും ചെയ്യും പരിമിത ക്രമീകരണ സ്ക്രൂ ഉപയോഗിച്ച് ഇവിടെ മിതമായ മർദ്ദം പ്രയോഗിക്കുക യഥാർത്ഥത്തിൽ ഇത് ശരിയായി സൂക്ഷിക്കേണ്ടതുണ്ട് കയ്യിലല്ല അതിനുള്ള ഏറ്റവും നല്ല മാർഗം അത് ഒരു പ്രസ് വൈസിലോ മെഷീൻ വൈസിലോ ലോക്ക് ചെയ്യുക എന്നതാണ് നമ്മൾ അത് മെഷീൻ വൈസിൽ ലോക്ക് ചെയ്യുമ്പോൾ അത് അനങ്ങില്ല ഞങ്ങൾ ഇത് ഇതുപോലെ ചെയ്യും ഞാൻ അത് ലോക്ക് ചെയ്യുന്നു ഇത് ലോക്ക് ചെയ്ത് റീഡിങ് വീണ്ടും പരിശോധിക്കുന്നു ഇത് വീണ്ടും മൂന്നാമത്തെ വായനയെ കവിയുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഈ വായന സംവേദനക്ഷമതയെ ദശാംശത്തിന്റെ രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ശക്തിയിലേക്കോ വ്യത്യാസപ്പെടാം അതിനാൽ വയറിംഗ് പാരലാക്സ് പിശക് ഞാൻ നോക്കട്ടെ യോജിക്കുന്ന റീഡിങ് കൊള്ളാം ഇത് പതിനഞ്ചാമത്തെ റീഡിങ് ആണ് പ്രധാന സ്കെയിലുമായി പൊരുത്തപ്പെടുന്ന വെർനിയർ സ്കെയിലിസിന്റെ പതിനഞ്ചാമത്തെ റീഡിങ് അതിനാൽ ഈ മൂല്യം ഞാൻ രേഖപ്പെടുത്തട്ടെ പതിനഞ്ചാമത്തെ റീഡിങ്ങിന് ഈ മൂല്യം 3 60 ആയി വരും ശരി കൂടാതെ 5 കൂടുതൽ നിരീക്ഷണങ്ങളിൽ ഞാൻ പല്ലുകൾ തമ്മിൽ മാറാതെയിരിക്കാൻ 1 2 3 4 5 എന്നീ അക്കങ്ങൾ ഇവിടെ ഇടുന്നു ഞാൻ ആദ്യത്തെ പല്ല് പരിശോധിക്കുകയാണ് ഞാൻ ഇത് 1 പോയിന്റിൽ പരിശോധിച്ചു ഈ അറ്റത്ത് മധ്യത്തിലായി ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ ഇത് പരിശോധിക്കാൻ ഞാൻ ശ്രമിക്കും മൂന്നാമത്തെ പോയിന്റിനായി വീണ്ടും ഞാൻ സ്ക്രൂകൾ അഴിച്ചു എന്റെ കോളിപ്പർ തുറന്ന് സ്ഥായിയായ ജോയിൽ സ്പർശിക്കും ഇത് കൂടുതൽ നീക്കുക ശരി ഇത് കൂടുതൽ നീക്കി ലോക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ശക്തി പ്രയോഗിക്കുക ഈ സ്ക്രൂ ലോക്ക് ചെയ്യുക ഇപ്പോൾ സ്ക്രൂകൾ ലോക്ക് ആയിരിക്കുന്നു നമുക്ക് റീഡിങ് വീണ്ടും പരിശോധിക്കാം അത് വീണ്ടും മൂന്നാമത്തെ പോയിന്റ് കവിഞ്ഞു പ്രധാന സ്കെയിലിൽ മൂന്നാം ഡിവിഷൻ ഇപ്പോൾ ഇവിടെ യോജിക്കുന്ന പോയിന്റ് ഏതെന്ന് ഞാൻ നോക്കാം കൊള്ളാം വീണ്ടും പതിനഞ്ചാമത്തെ റീഡിങ് പൊരുത്തപ്പെടുന്നു രണ്ട് സ്കെയിലുകളും നമ്മൾ ഇവിടെ കാണേണ്ടതുണ്ട് വെർനിയർ സ്കെയിലിന്റെ പതിനഞ്ചാമത്തെ റീഡിങ് പ്രധാന സ്കെയിലിന്റെ റീഡിങ്ങുമായി പൊരുത്തപ്പെടുന്നു പതിനഞ്ചാമത്തെ റീഡിങ് യോജിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ സൂഷ്മമായ നിരീക്ഷണമാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കണ്ണട ധരിക്കാം ഇത് കാണുന്നതിന് നിങ്ങൾക്ക് ലെൻസ് മാഗ്നിഫൈയിംഗ് ലെൻസ് എന്നിവ ഉപയോഗിക്കാം അതിനാൽ പതിനഞ്ചാമത്തെ റീഡിങ് യോജിക്കുന്നു റീഡിങ്ങുകൾ ഇവിടെ വളരെ അടുത്താണെന്നത് ശ്രദ്ധേയമാണ് പതിനഞ്ചാമത്തെ റീഡിങ്ങിന് ഈ മൂല്യം 3 60 ആണ് ഈ ശരാശരി 3 64 പ്ലസ് 3 60 പ്ലസ് 3 60 ഈ ശരാശരി ഏകദേശം 3 61 ആയി വരുന്നു ഈ ശരാശരി നിങ്ങൾക്ക് ഗ്രൂപ്പ് ശരാശരി എന്ന് വിളിക്കാം ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഇടവേള എടുത്ത് മറ്റ് കണക്കുകൂട്ടലുകൾ നടത്തുകയും മറ്റ് റീഡിങ്ങുകൾ എടുക്കുകയും ഇവിടെ കുറിക്കുകയും ചെയ്യുന്നു ഗിയർ എങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ കാണും ഇവിടെ 5 പല്ലുകളിൽ നിന്ന് വായന എടുക്കുന്നതിന് നിങ്ങളുടെ സമയം ഞാൻ ലാഭിച്ചു ഓരോ പല്ലും 3 നിരീക്ഷണങ്ങൾ എടുക്കുന്നു രണ്ടാമത്തെ പല്ലിൽ 3 62 3 60 3 62 മൂന്നാമത്തെ പല്ലിൽ 3 58 3 64 3 60 എന്ന് നിങ്ങൾക്ക് കാണാം അഞ്ചാമത്തെ പല്ല് അല്പം ഔട്ട്ലയറാണെന്ന് നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ ഇവിടെ ശരാശരി കണക്കാക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ശരാശരി അഞ്ചാമത്തെ പല്ലിന് 3 57 ന് അടുത്തായിരിക്കും രണ്ടാമത്തെ പല്ലിന് 3 62 ന് അടുത്തായിരിക്കും ഇത് യഥാർത്ഥത്തിൽ 3 56 ആണ് അതിനടുത്താണ് മൂന്നാമത്തേതിന് ഇത് 3 60 ന് അടുത്തായിരിക്കും ഇത് വീണ്ടും 3 60 ന് അടുത്താകും ഇതിനെ അടിസ്ഥാനമാക്കി മൊത്തത്തിലുള്ള ശരാശരി ഞാൻ കണക്കാക്കുന്നില്ല മൊത്തത്തിലുള്ള ശരാശരി അല്ലെങ്കിൽ ശരാശരി 3 60 ന് തുല്യമോ അടുത്തോ ആണെന്ന് എനിക്ക് പറയാൻ കഴിയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കാര്യം പിച്ച് സർക്കിൾ വ്യാസത്തിൽ എന്റെ പല്ലിന്റെ കനം 3 60 ആണ് ഇതാണ് മൊത്തത്തിലുള്ള ശരാശരി ഇപ്പോൾ എന്താണ് വ്യത്യാസം അഞ്ചാമത്തെ പല്ല് അല്പം വഷളായതായി നമുക്ക് കാണാം അഞ്ചാമത്തെ പല്ലിൽ ഇത് കൂടുതൽ തേയ്മാനം സംഭവിച്ചിരിക്കുന്നു ചില സമയങ്ങളിൽ ടിക് ശബ്ദം വരുന്നതുപോലുള്ള ചില ശബ്ദമുണ്ട് ഒപ്പം ഒരു നക്കിളിംഗ് ഉണ്ട് അല്ലെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ടാകാം നമുക്ക് അത് കാണാൻ കഴിയും ഇതാണ് ദുർബലമായ പോയിന്റ് നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്തു പല്ലിന്റെ നമ്പർ 5 ഇത് ദുർബലമായ പോയിന്റാണ് അത് ഇനിയും കുറയുകയാണെങ്കിൽ അത് പരിധി കവിയുകയും അനുവദനീയമായ പരിധി കവിയുകയും ചെയ്യും ഇതാണ് വെർനിയർ കാലിപ്പറിന്റെ ഉപയോഗം ഞാൻ ഇവിടെ വളരെ മനോഹരമായ ഒരു ഡാറ്റ സൃഷ്ടിച്ചു സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൂട്ടലുകളിലും എനിക്ക് ഇതേ ഡാറ്റ ഉപയോഗിക്കാൻ കഴിയും എനിക്ക് ശരാശരി മൊത്തത്തിലുള്ള ശരാശരി ഉപയോഗിക്കാൻ കഴിയും എനിക്ക് 5 ഗ്രൂപ്പുകളുണ്ട് നമുക്ക് ഈ ഗ്രൂപ്പ് വലുപ്പവും ഉണ്ട് ഗ്രൂപ്പ് വലുപ്പം 3 3 റീഡിംഗുകൾ നമ്മൾ സൃഷ്ടിച്ച അതേ റീഡിങ്ങുകൾ എനിക്ക് ഉപയോഗിക്കാം നമ്മൾ ഇവിടെ ഒരു പ്രാഥമിക ഡാറ്റ സൃഷ്ടിച്ചു കൂടാതെ ശരാശരി മീഡിയൻ മോഡ് ശ്രേണി തുടങ്ങിയ ഗ്രൂപ്പ് ശരാശരികൾ കണ്ടെത്തുന്നതിന് ഞാൻ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിലേക്ക് കൊണ്ടുപോകും അതെല്ലാം ഞങ്ങൾ അവിടെ നിങ്ങളോട് പറയും ഇതാണ് ഗിയർ വെർനിയറിന്റെ പ്രയോഗം നമ്മൾ ഗിയറുകൾ നിർമ്മിക്കുമ്പോൾ ഗിയർ വെർനിയർ ഉപയോഗിക്കണം എന്ന് നിര്ബന്ധമില്ല പരിശോധനയ്ക്കിടയിലും മെഷീനുകൾ പ്രവർത്തിക്കുമ്പോഴും പരിശോധനയ്ക്കിടെ ചില ഗിയറുകൾ എന്തെങ്കിലും പ്ലേ കാണിക്കുന്നുണ്ടെങ്കിലോ കുറച്ച് ശബ്ദം വരുന്നുണ്ടെന്നോ നമുക്ക് നോക്കാം നമുക്ക് പരിശോധിക്കാം ഏതെങ്കിലും പല്ല് വഷളാണോ തേയ്മാനം കൂടുതലാണോ അത് മാറ്റിസ്ഥാപിക്കണോ വേണ്ടയോ ഇതിനൊക്കെ ഗിയർ വെർനിയർ പ്രയോഗിക്കാൻ കഴിയും മുൻകരുതലുകളും മാർഗ്ഗനിർദ്ദേശങ്ങളും വെർനിയർ കാലിപ്പറിനും മറ്റ് ഉപകരണങ്ങൾക്കും മുമ്പുണ്ടായിരുന്നതുപോലെ സമാനമായിരിക്കും ഉപകരണങ്ങൾ വൃത്തിയാക്കുക തുടർന്ന് ഉപകരണങ്ങൾ ശരിയായി സ്ഥാപിക്കുക തുടർന്ന് സമ്മർദ്ദം തുടർന്ന് ശരിയായ കാലിബ്രേഷൻ 0 പിശക് ഇവയെല്ലാം നിർദ്ദേശിക്കേണ്ടതുണ്ട് ഇത്രയും ഗിയർ വെർനിയറിനെക്കുറിച്ചായിരുന്നു ഞാൻ ഇവിടെ വീണ്ടും ഒരു ഇടവേള എടുക്കുന്നു പ്രകടനത്തിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ ചർച്ച ചെയ്യാൻ നമ്മൾ മറ്റൊരു ഉപകരണം തിരഞ്ഞെടുക്കും